നമ്മൾ നേരത്തെ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ പഠിച്ചുവല്ലോ ഇതനുസരിച്ച് നമ്മൾ പറഞ്ഞു n ഇൻഫിനിറ്റി യോടടുക്കുമ്പോൾ അതായത് ക്വാണ്ടം നമ്പർ വളരെ വലുതാകുമ്പോൾ ക്വാണ്ടം റിസൾട്ട് ക്ലാസിക്കൽ റിസൾട്ടിലേക്കെത്തുന്നു എന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഈ സിദ്ധാന്തം ഉപയോഗിച്ച് സെലക്ഷൻ റൂൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ A കോയിഫിഷ്യന്റ് ഇവ എങ്ങനെ കാണാമെന്നു നോക്കാം നേരത്തെ നമ്മൾ 3 ഉദാഹരണങ്ങൾ എടുത്തത് ഓർക്കുന്നുണ്ടല്ലോ ഇപ്പോൾ അതിൽ രണ്ടെണ്ണം അതായത് ഹാർമോണിക് ഓസിലേറ്ററും പാർട്ടിക്കിൾ ഇൻ എ ബോക്സും എടുക്കാം ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് x ∑Ceiτωt എന്നെടുത്തു ഇവിടെ 𝜔 എന്നത് അടിസ്ഥാന ഫ്രീക്വൻസി ഹാർമോണിക് ഓസിലേറ്ററിൽ x യ്ക്ക് ഒരു കംപോണേന്റ് മാത്രമേയുള്ളൂ അതായത് ഇതിനെ വേണമെങ്കിൽ ഒന്നുകൂടെ ശരിയാക്കി എന്നെഴുതാം അപ്പോൾ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് അഥവാ ഒരു അപരിമിത പൊട്ടൻഷ്യൽ ഗർത്തത്തിലുള്ള പാർട്ടിക്കിൾ എടുത്താൽ അതിന്റെ അടിസ്ഥാന ഫ്രീക്വൻസി 𝞶 v 2L ഉം അതിന്റെ മുകളിലുള്ള ഹാർമോണിക്സും ആയിരിക്കും അതുകൊണ്ടുതന്നെ പാർട്ടിക്കിൾ ചലിക്കുമ്പോൾ അത് എല്ലാ ഫ്രീക്വൻസിയിലും റേഡിയേറ്റ് ചെയ്യുന്നു അതായത് അടിസ്ഥാന ഫ്രീക്വൻസിയിലും അതിന്റെ മുകളിലുള്ള ഹാർമോണിക്സിലും അഥവാ clasical എന്നാൽ ഹാർമോണിക് ഓസിലേറ്ററിൽ പാർട്ടിക്കിൾ ഒരേ ഒരു ഫ്രീക്വൻസിയിൽ മാത്രമേ റേഡിയേറ്റ് ചെയ്യുന്നുള്ളൂ ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം അപ്പോൾ ക്ലാസിക്കൽ തിയറി അനുസരിച്ച് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് അടിസ്ഥാന ഫ്രീക്വൻസിയ്ക്കു പുറമെ അതിന്റെ ഹാർമോണിക്സിലും റേഡിയേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാ ഫ്രീക്വൻസിയിലും റേഡിയേറ്റ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ തുടർച്ചയായി വ്യത്യാസപ്പെട്ടുവരുന്ന ഫ്രീക്വൻസി എന്നർത്ഥമില്ല ഇതിനർത്ഥം പാർട്ടിക്കിൾ En ലെവൽ അതായത് n ക്വാണ്ടം നമ്പർ ആയുള്ള അവസ്ഥയിൽ നിന്നും En 𝞃 ലെവലിലേക്ക് മാറുമ്പോൾ ഉത്സർജിക്കപ്പെടുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി 𝞃𝞈n ആയിരിക്കും ഇവിടെ 𝞈n എന്നത് nth ലെവലിൽ ഉള്ള പാർട്ടിക്കിളിന്റെ ആംഗുലാർ ഫ്രീക്വൻസി

ക്ലാസിക്കൽ തിയറി അനുസരിച്ച് nth ലെവലിൽ ഉള്ള പാർട്ടിക്കിളിന്റെ സഞ്ചാര ഫ്രീക്വൻസി 𝞈n തന്നെ ആയിരിക്കും അതിന്റെ റേഡിയേഷൻ ഫ്രീക്വൻസിയും നേരത്തെ നമ്മൾ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് x യും ടൈം t യും തമ്മിലുള്ള ഗ്രാഫ് വരച്ചിരുന്നല്ലോ ഇത് ഒരു ശുദ്ധ ഹാർമോണിക് മോഷൻ അല്ല എന്ന് നാം കണ്ടിരുന്നല്ലോ x യിൽ ഉയർന്ന ഹാർമോണിക്സ് കൂടി ഉണ്ട് ഈ മോഷൻ നമ്മൾ x ∑Ceiτωt എന്ന രൂപത്തിലാണ് കാണിച്ചിരുന്നത് ഇവിടെ 𝞈 എന്നതിന് നമുക്ക് 𝞈n എന്നെടുക്കാം അപ്പോൾ അപ്പോൾ ഇവിടെ 𝞈n ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻ ഉണ്ടാകുന്നു ഇതോടൊപ്പം ഉയർന്ന ഹാർമോണിക്സിലുള്ള ഫ്രീക്വൻസി കൂടി അടങ്ങിയിരിക്കുന്നതിനാൽ റേഡിയേഷനിൽ എല്ലാ തരത്തിലുള്ള ഫ്രീക്വൻസിയും ഉണ്ടായിരിക്കും ഇതിൽ നിന്നും ക്വാണ്ടം ട്രാൻസിഷനെകുറിച്ച് എന്ത് വിവരമാണ് ലഭിക്കുന്നതെന്ന് നോക്കാം ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് റേഡിയേഷൻ ഉണ്ടാകുന്നത് പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്നതുകൊണ്ടല്ല മറിച്ച് ക്വാണ്ടം ജമ്പ് നടക്കുന്നതുകൊണ്ടാണ് അപ്പോൾ റേഡിയേഷൻ ഉണ്ടാവുന്നത് ഒരു ലെവലിൽ നിന്നും മറ്റൊരു ലെവെലിലേക്കുള്ള പാർട്ടിക്കിളിന്റെ ചാട്ടം കാരണമാണ് എന്നാൽ ക്ലാസിക്കൽ തിയറി അനുസരിച്ച് റേഡിയേഷൻ ഉണ്ടാവുന്നത് ചാർജുള്ള പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ കാരണമാണ് റേഡിയേഷൻ ഉണ്ടാവുന്നത് ഇപ്രകാരം nth ലെവലിൽ നിന്നും n 𝞃th ലെവലിലേക്ക് പാർട്ടിക്കിൾ പതിക്കുമ്പോഴാണെങ്കിൽ ഫ്രീക്വൻസി ഇത് തമ്മിൽ ഒരു ഫൈനൈറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും ക്ലാസിക്കൽ തിയറി അനുസരിച്ച് നമ്മൾ ν∂E∂J അതായത് ആക്ഷൻ J യുമായി ബന്ധപ്പെടുത്തിയുള്ള ഡിഫറെൻസിയേഷനിൽ കൂടെയായിരുന്നു ഫ്രീക്വൻസി ലഭിച്ചത് ഇവിടെ n →∞ ആകുമ്പോൾ ഇവിടെ 𝞶n എന്നത് ക്ലാസിക്കൽ ഫ്രീക്വൻസി ആണ് അപ്പോൾ ക്ലാസിക്കൽ തിയറി അനുസരിച്ച് എല്ലാ ഫ്രീക്വൻസിയും കാണപ്പെടുന്നതുകൊണ്ട് നമുക്ക് പറയേണ്ടി വരും ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് പാർട്ടിക്കിളിന് ഏത് n 𝞃th ലെവലിലേക്കും ചാടാൻ സാധിക്കുമെന്ന് ഇത് നമുക്ക് ഒന്ന് കൂടെ വിശകലനം ചെയ്യാം ഇതാണ് nth ലെവൽ ഇത് n 𝞃th ലെവൽ ഇവിടെ പാർട്ടിക്കിൾ ഇവിടെനിന്നും താഴേക്ക് ചാടുമ്പോൾ റേഡിയേഷൻ ഉണ്ടാവുന്നു ഉണ്ടാവുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാ 𝞃𝜈n ഫ്രീക്വൻസിയിലും റേഡിയേഷൻ ഉത്സർജിക്കപ്പെടുന്നുണ്ടെന്ന് പാർട്ടിക്കിൾ 𝜈n എന്ന അടിസ്ഥാന ഫ്രീക്വൻസിയിലാണ് പീരിയോഡിക് മോഷനിൽ ഏർപ്പെട്ടിരിക്കുന്നതെങ്കിലും ഇതിന്റെ എല്ലാ ഉയർന്ന ഹാർമോണിക്സിലും റേഡിയേഷൻ ഉണ്ടാകുന്നുണ്ട് അതായത് പാർട്ടിക്കിൾ nth ലെവലിൽ നിന്നും ഏതെങ്കിലും നിശ്ചിത n 𝞃th ലെവലിലേക്ക് മാത്രമേ ചാടാൻ പറ്റൂ എന്ന നിയന്ത്രണമില്ല എന്നർത്ഥം നമുക്ക് കേവലം വാദത്തിനു വേണ്ടി ഒരു ഉദാഹരണം എടുക്കാം ഉദാഹരണമായി nth ലെവലിൽ നിന്നും th ലെവലിലേക്ക് മാത്രമേ പാർട്ടിക്കിളിന് സ്ഥാനം മാറാൻ പറ്റൂ എന്ന നിയന്ത്രണം വരുത്തുകയാണെങ്കിൽ n →∞ ആകുമ്പോൾ അടിസ്ഥാന ഫ്രീക്വൻസിയിൽ മാത്രമേ റേഡിയേഷൻ ബഹിർഗമിക്കയുള്ളൂ എന്നാൽ ഇവിടെ ഉയർന്ന ഹാർമോണിക്സിൽ റേഡിയേഷൻ ഉണ്ട് അതിനർത്ഥം th ലെവലിലേക്കു മാത്രമല്ല ഏത് ലെവലിലേക്കും പാർട്ടിക്കിളിന് ചാടാൻ പറ്റുമെന്നാണ് ഇനി നമുക്ക് അറിയാനുള്ളത് n ന്റെ ഏതെങ്കിലും ക്രിറ്റിക്കൽ വാല്യൂവിന്റെ മുകളിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് ശരിയെന്നും n ന്റെ ഏതെങ്കിലും ക്രിറ്റിക്കൽ വാല്യൂവിന്റെ താഴെ ക്വാണ്ടം മെക്കാനിക്സ് ശരിയെന്നും പറയാൻ കഴിയുമോ എന്നാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ക്ലാസിക്കൽ മെക്കാനിക്സിനേയും ക്വാണ്ടം മെക്കാനിക്സിനേയും വേർതിരിക്കുന്ന കൃത്യമായ ബോർഡർ ഉണ്ടോയെന്നാണ് ഇതിനുത്തരം ഇല്ല എന്നുതന്നെയാണ് യഥാർത്ഥത്തിൽ അനുയോജ്യമായ തിയറി ക്വാണ്ടം മെക്കാനിക്സ് ആണ് Eh നു പകരം ∂E∂Jn𝞃 എടുക്കുമ്പോൾ മാത്രമാണ് ക്ലാസിക്കൽ തിയറി ഇവിടെ അനുയോജ്യമാവുന്നത് അതിനർത്ഥം n വളരെ വലുതാവണമെന്നും 𝞃 n നേക്കാൾ വളരെ ചെറുതാവണമെന്നുമാണ് ആകെയുള്ള ഒരു കണ്ടീഷൻ ഇതിന്റെ അടിസ്ഥാന തത്വം എന്തെന്ന് വെച്ചാൽ എനർജി വ്യത്യാസത്തിനു പകരം ഡെറിവേറ്റീവ് ഉപയോഗിച്ചാൽ ക്ലാസിക്കൽ റിസൾട്ടിലേക്കെത്താമെന്നാണ് ഇതിനായി n വളരെ വലുതും 𝞃 n നേക്കാൾ വളരെ ചെറുതുമാവണം ഇനി നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് അതായത് ഹാർമോണിക് ഓസിലേറ്ററിലേക്ക് കടക്കാം ക്ലാസിക്കൽ തിയറി അനുസരിച്ച് ഇതിന്റെ ചലനം നമുക്ക് എന്ന ഇക്വേഷനിലൂടെ കാണിക്കാം ഇതിൽ നിന്നും നിങ്ങൾക്ക് കാണാം ഹാർമോണിക് ഓസിലേറ്ററിന് ഒരേ ഒരു ഫ്രീക്വൻസി മാത്രമേയുള്ളൂ എന്ന് ക്വാണ്ടം മെക്കാനിക്സിൽ കൂടെ നമുക്കിത് പരിശോധിക്കാം ഇവിടെ h𝜈 2h𝜈 3h𝜈 4h𝜈 എന്നിങ്ങനെ എനർജി ലെവലുകളുണ്ട് പാർട്ടിക്കിൾ ഏതെങ്കിലും ഉയർന്ന ലെവലിൽ നിന്നും താഴേക്ക് ചാടുമ്പോൾ റേഡിയേഷൻ ഉത്സർജിക്കപ്പെടുന്നു അടുത്തതായി നമുക്കിത് ക്ലാസിക്കൽ റിസൾട്ടുമായി താരതമ്യം ചെയ്തു നോക്കാം നമുക്കിവിടെ സെലക്ഷൻ റൂൾ പ്രയോഗിക്കാം ഇവിടെ nth ലെവലിൽ നിന്നും n 𝞃th ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോൾ ക്ലാസിക്കൽ ലിമിറ്റ് അനുസരിച്ച് ഫ്രീക്വൻസി 𝞃𝜔 ആയിരിക്കും എന്നാൽ ക്ലാസിക്കൽ നിരീക്ഷണത്തിൽ 𝜔 എന്ന ഒറ്റ ഫ്രീക്വൻസി മാത്രമേ കാണുന്നുള്ളൂ അതിനർത്ഥം 𝞃 യുടെ മാക്സിമം വാല്യൂ 1 മാത്രമാണെന്നാണ് അതായത് ഹാർമോണിക് ഓസിലേറ്ററിന് നിയന്ത്രണ വിധേയമായ ട്രാൻസിഷൻ മാത്രമേ സാധ്യമാവുള്ളൂ എന്നാണ് അപ്പോൾ ഹാർമോണിക് ഓസിലേറ്ററിന് nth ലെവലിൽ നിന്നും th ലെവലിലേക്ക് ചാടി റേഡിയേഷൻ ഉത്സർജിക്കാനോ അല്ലെങ്കിൽ തക്ക ഫ്രീക്വൻസി ആഗിരണം ചെയ്ത് n1 th ലെവലിലേക്ക് ഉത്തേജിക്കപ്പെടാനോ മാത്രമേ സാധിക്കൂ ഇതിൽ നിന്നും സെലക്ഷൻ റൂൾ ലഭിക്കുന്നതാണ് ഇതനുസരിച്ച് റേഡിയേറ്റീവ് ട്രാൻസിഷൻ നടക്കുന്നത് Δn ± 1 അഥവാ |Δn| 1 ആകുമ്പോൾ മാത്രമാണ് മറ്റേതൊരു ട്രാൻസിഷനും റേഡിയേഷൻ ഉണ്ടാവുന്നില്ല അതായത് ഇതല്ലാതെ റേഡിയേഷൻ ഉത്സർജിക്കപ്പെടുന്ന മറ്റേതൊരു ട്രാൻസിഷനും ഉണ്ടാവില്ല ഇതെന്തുകൊണ്ടെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം കാരണം n വളരെ കൂടുതലായുള്ള കേസിൽ മറ്റു ട്രാൻസിഷനുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ തൽഫലമായുള്ള ഫ്രീക്വൻസികളും കാണേണ്ടതാണ് എന്നാൽ ഇത് സംഭവിക്കുന്നില്ല അതായത് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ക്വാണ്ടം ലെവലിൽ ഇത്തരം ഒരു ട്രാൻസിഷൻ മാത്രമേ സാധ്യമാവുള്ളൂ അപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യം നമുക്ക് ലേസർ ഉത്പാദിപ്പിക്കാൻ ആവശ്യമായ മോണോക്റോമാറ്റിക് ലൈറ്റ് വേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഹാർമോണിക് ഓസിലേറ്റർ കൺഫൈൻമെന്റ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് ഇവിടെ ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല കാരണം ലേസറിൽ ട്രാൻസിഷന് ആവശ്യമായ കൃത്യം ഫ്രീക്വൻസി തിരഞ്ഞെടുക്കയാണ് അപ്പോൾ ഏതു സിസ്റ്റം എടുത്താലും സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കാൻ ആവശ്യമായ ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലായിരിക്കും അതിനാൽ ഈ ചോദ്യം പ്രസക്തമല്ല